എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന പ്രശ്നത്തിലേക്ക് കടക്കാം പോളി ഡി ലൈസിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അവയുടെ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെ മാറുന്നു എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് ഫോട്ടോഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എഎഫ്എം പിന്നെ കോൺടാക്ട് ആംഗിൾ അളക്കുക എന്നിവ ഉപയോഗിക്കാൻ സാധിക്കും ഒരു സബ്സ്ട്രേറ്റുമായി നിങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഉദാഹരണത്തിന് ഞാനിവിടെ 4 കോൺസെൻട്രേഷനിൽ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് PLD1 PLD2 PLD3 PLD4 എന്നിവ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഇതിനു മുകളിൽ നിങ്ങൾ കോശങ്ങളെ വെക്കുക മീഡിയത്തിന്റെ കൂടെ ഇനി കോശങ്ങൾക്ക് ഉള്ള അറ്റാച്മെന്റ് പ്രോപ്പർട്ടി നോക്കുക ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ സെൽ സസ്പെൻഷൻ അതിനെ ഞാൻ നീലനിറത്തിൽ കാണിക്കുന്നു ഈ മീഡിയത്തിലാണ് കോശങ്ങൾ സസ്പെൻഡ് ആയി കിടക്കുന്നത് ഇനി നിങ്ങൾ കോശങ്ങളെ ഇവിടെ പ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ പാളിയായി മീഡിയം ആ കോശങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും അതിനു ശേഷം നിങ്ങൾ ഒരു കവർ സ്ലിപ്പ് ഇതിന് മുകളിൽ വയ്ക്കുക സെൽ സസ്പെൻഷനിനെ അവിടെ തടഞ്ഞുനിർത്താൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യാനുള്ളത് അത് അവിടെത്തന്നെ നിൽക്കുന്നുണ്ടോ അതോ പടർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ കൈയിൽ ഈ സബ്സ്ട്രേറ്റ് ഉണ്ട് ഇവിടെ ഒരു ചെറിയ ടെസ്റ്റ്യൂബ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ വേർതിരിച്ചെടുത്ത കോശങ്ങളെ ഇട്ടു വെച്ചിട്ടുണ്ട് ആയി ഇരിക്കുകയാണ് ഇനി ഈ കോശങ്ങളെ നിങ്ങൾ ഇവിടെ വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആദ്യം വെച്ചത് പോലെ തന്നെ ഇരിക്കാം ചിലപ്പോൾ കുറച്ച് നേരം മാത്രം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അത് ഇങ്ങനെ പടർന്നു ചെല്ലാം കോശങ്ങളെ ഞാനിവിടെ കടുംനീല നിറത്തിൽ ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കോശങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ ഇങ്ങനെയും പടർന്നു ചെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഇവയെല്ലാം സമയത്തോട് അനുബന്ധിച്ച് ചിത്രീകരിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇരിക്കും അടുത്തത് ഇങ്ങനെ വരും ഇത് ഇങ്ങനെയും വരും മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾക്ക് ഇത് വ്യക്തമായി കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്രോസ്കോപ് ആണ് അതിലൂടെ നിങ്ങൾക്ക് ഈ മോളിക്യൂളുകൾ എങ്ങനെയാണ് ഉപരിതലവും ആയി ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നേരത്തെ കോശങ്ങൾ ഇല്ലാതെ കോൺടാക്ട് ആംഗിൾ അളന്നെടുത്തപ്പോൾ കിട്ടിയ അറിവും ആയി ഇത് താരതമ്യം ചെയ്തു നോക്കുക അവർക്ക് എത്രമാത്രം സാമ്യം ഉണ്ടെന്നും എത്രമാത്രം സാമ്യം ഇല്ലായ്മ ഉണ്ടെന്നും നോക്കുക ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡിഷ് എടുക്കുക ഒരു അരമണിക്കൂർ നിങ്ങൾ കാത്തിരിക്കുക അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചരിക്കുക നിങ്ങൾ ഒരു ചെറിയ ആംഗിളിൽ ഇങ്ങോട്ട് ചരിക്കുക ഇതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇനിയും മീഡിയം നിറയ്ക്കാൻ ഉണ്ടാകും ഈ കോശങ്ങൾ ഇതിലേക്ക് ഒട്ടിപിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവ ഉരുണ്ട പോകുന്നത് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എൻറെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കോശങ്ങൾക്ക് ഒട്ടി പിടിക്കണമെങ്കിൽ അത് 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ചില ഒട്ടിപ്പിടിക്കാത്തവ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം അവയെ നമുക്ക് എറർ മാർജിൻ ആയി കൂട്ടാൻ പറ്റും പക്ഷേ അവയ്ക്ക് ഒട്ടി പിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഡിഷ്നെ ഇങ്ങനെ ചരിച്ചാൽ ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ ഡിഷ് ഇതിലാണ് നിങ്ങൾ കോശങ്ങളെ വളർത്തുന്നത് ഇനി നിങ്ങൾ ഒരു കവർ സ്ലിപ്പ് എടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്സ്ട്രേറ്റ് അതിൽ ഉണ്ടാവണം കോശങ്ങൾ ഇവിടെയാണുള്ളത് ഇനി നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഈ ഡിഷ്നെ ചരിക്കുക വളരെ ചെറുതായി ഏകദേശം ഇത്രയും കോശങ്ങൾ സബ്സ്ട്രേറ്റുമായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉരുളുന്നത് കാണാൻ സാധിക്കില്ല പക്ഷേ ചില കോശങ്ങൾ ഒട്ടിപിടിക്കില്ല അവ താഴോട്ടു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഈ കോശങ്ങൾ ചാടിയും ഉരുണ്ടും എല്ലാം താഴോട്ടു പോകും പക്ഷേ നിങ്ങൾക്ക് എന്നാലും കുറച്ചു കോശങ്ങൾ അവിടെ സബ്സ്ട്രേറ്റിൽ തന്നെ ഇരിക്കുന്നത് കാണാം ആ സമയത്ത് മറ്റൊരു ആകർഷകമായ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കോശങ്ങൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പുറപ്പെടുവിക്കുന്നത് കാണാൻ സാധിക്കും ഇത് വെച്ച് ആ കോശങ്ങൾ സബ്സ്ട്രേറ്റിൽ നന്നായി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷിൽ നിറച്ച് മീഡിയം ഒഴിച്ച് വയ്ക്കാവുന്നതാണ് അതുകഴിഞ്ഞ് നിങ്ങൾ ഇതിനെ വളരാൻ വേണ്ടി കാർബൺഡയോക്സൈഡ് ഇൻകുബേറ്ററിൽ കൊണ്ട് വയ്ക്കുക അത് കാർബൺഡയോക്സൈഡിനെ ആശ്രയിക്കുന്നു എങ്കിൽ കാർബൺഡയോക്സൈഡ് ഇൻകുബേറ്ററിൽ നമ്മൾ അതിനെ കൊണ്ട് വെക്കേണ്ടതാണ് നിങ്ങൾക്ക് അല്ലാത്ത ഇൻകുബേറ്ററിലും വെക്കാവുന്നതാണ് അത് നിങ്ങൾ ഏത് തരം മീഡിയം ആണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ബഫറിംഗ് അതുപോലെ ഏതുതരം ഇങ്കുബേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്തെന്നാൽ ഇതിനെ വളരാൻ വേണ്ടി നിങ്ങൾ ഇങ്കുബേറ്ററിനകത്ത് ഇതിനെ വെക്കേണ്ടി വരും പോളി ഡി ലൈസിന്റെ അളവനുസരിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റും പോളി ഡി ലൈസിൻ കോശങ്ങളെ ഒട്ടി പിടിച്ചിരിക്കാൻ സഹായിക്കുമോ ഇല്ലയോ എന്ന് ഇങ്ങനെയാണ് അളവുകൾ മാറുന്നത് പിന്നെ ഈ ഒരു മേഖലയിൽ കോശങ്ങൾ ഒട്ടി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല എൻറെ പരിചയം വച്ച് പറയുകയാണെങ്കിൽ ന്യൂറൽ കോശങ്ങൾ അവിടെ പറ്റിപ്പിടിച്ച് ഇരുന്നാലും അവയുടെ വളർച്ച വളരെ വിചിത്രമായിരിക്കും അപ്പോൾ ഈ പോളി ഡി ലൈസിൻ വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ ആകുമ്പോൾ അത് നന്നായി ആയി ഉപയോഗിക്കാൻ സാധിക്കും അതിനു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് ഈ പോസിറ്റീവ് ചാർജ് NH 2 ഗ്രൂപ്പ് വഴി ആണ് ഉണ്ടാകുന്നത് അത് ഉപരിതലത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കോശങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് തുടക്കത്തിലുള്ള അവസ്ഥയാണ് അത് മുഴുവനും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ കാരണം ആണ് കോശങ്ങൾ അവിടെ ഉറച്ച് ഇരിക്കാൻ വേണ്ടി സബ്സ്ട്രേറ്റുമായി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നു ഇത് ഇവിടെ പറയാൻ ഉള്ള കാരണം നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഉള്ള തുടക്ക ഭാഗം വളരെ എളുപ്പത്തിൽ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ് ഈ കോശങ്ങളെ അവിടെ പിടിച്ചു നിർത്തുന്നത് അതിന് പക്ഷേ കുറച്ച് സമയം വേണ്ടിവരും ദാ നോക്കൂ ഇവിടെ ഒരു ചരിവ് ഉണ്ട് കോശങ്ങളെല്ലാം വരുകയാണ് കുറച്ച് സമയം എടുത്ത് അത് ഒരു സ്ഥലത്ത് വന്നു നിൽക്കും അവിടെവച്ച് അത് അതിൻറെ ജനറ്റിക് മെഷിനറിയോട് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാക്കാൻ പറയും അത് വെച്ചിട്ട് കോശങ്ങൾ കുറച്ചുകൂടെ നല്ല ബന്ധം സബ്സ്ട്രേറ്റുമായി ഉണ്ടാകും ഇവിടെ പിങ്ക് നിറത്തിൽ നിങ്ങൾ കാണുന്നത് കോശങ്ങൾ പുറത്തുവിട്ട ECM ആണ് ഒരാൾക്ക് ക്രമാനുഗതമായി ഈ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം നിരീക്ഷിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന മിക്ക സെൽ കൾച്ചറിലും ഇങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷേ ഇത് വളരെ പ്രധാനമാണ് നമ്മൾ കോശങ്ങൾ അടിസ്ഥാനമാക്കിയ ബയോസെൻസറിനെ കുറിച്ചും മൈക്രോ ഫ്ലൂയിടിക് യന്ത്രങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു ഇതെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഉദാഹരണം ലാബ് ഓൺ എ ചിപ്പ് അത് കോശങ്ങളെ അടിസ്ഥാനമാക്കിയ ബയോസെൻസറാണ്Biosensors ഒരാൾ ഇവയെല്ലാം വ്യാവസായിക മേഖലയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അതായത് ഡ്രഗ് സ്ക്രീനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ വളരെ കൂലംകക്ഷമായ സർഫസ് അനാലിസിസ് നടത്തേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ വരാം പലപ്പോഴും ഈ ലോകത്തിൽ ആളുകൾ ഇതിനെ വ്യാവസായിക മേഖലയിലേക്ക് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസമാണ് അവരുടെ പരീക്ഷണത്തിന്റെ ഫലമായി വരുന്നത് ഇനി പോളി ഡി ലൈസിനും കൊളാജനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സംസാരിക്കാം ഇവിടെ ഒരു പോളി ഡി ലൈസിനും കോശങ്ങളും ഉണ്ട് ഇവിടെ രണ്ടു ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കോശങ്ങൾ ഇവിടെയുണ്ട് സബ്സ്ട്രേറ്റും ഇവിടെയുണ്ട് ഈ കോശങ്ങൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നു രണ്ടാമതായി രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ കോശങ്ങൾ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് അല്ലെങ്കിൽ ECM പുറപ്പെടുവിച്ച് അവിടെ സ്ഥിരതയോടെ ഇരിക്കുന്നു ഈ ഒരു കാര്യം മനസ്സിൽ വച്ച് നമുക്ക് മുന്നോട്ടു നീങ്ങാം നമ്മൾ നേരത്തെ തന്നെ ഇവയുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞതാണ് ഇനി നമുക്ക് നാച്ചുറൽ അവസ്ഥയെക്കുറിച്ച് നോക്കാം നമ്മൾ ഈ രണ്ട് എണ്ണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നാച്ചുറൽ മോളിക്യൂളിനെ കുറിച്ച് നോക്കാം തിരിച്ചു നമ്മുടെ പട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തത് കൊളാജൻ ആണ് ഈ കൊളാജനിലും നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ സബ്സ്ട്രേറ്റ് എടുക്കുക നിങ്ങളുടെ കയ്യിൽ കൊളാജൻ പ്രോട്ടീനുണ്ട് അതിനെ ഒരു ബഫറിൽ അലിയിക്കുക ഇവിടെ നിങ്ങൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബഫർ ആണ് കാരണം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊളാജൻ പ്രോട്ടീനാണ് അവയെ അലിയിപ്പിക്കേണ്ടത് ബഫറിലാണ് നിങ്ങൾ ഇവിടെ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങളാണ് ഇവിടെയും ചെയ്യേണ്ടത് ഇവിടെ പല കോൺസെൻട്രേഷനിൽ ഉള്ളത് ഒഴിക്കുക കൊളാജൻ പല അളവിൽ അവിടെ കൂടെ വരും നിങ്ങൾ ഇവിടെ ഒരു സബ്സ്ട്രേറ്റിനെ വെക്കുക കോളേജൻ പല കോൺസെൻട്രേഷനിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോളേജന്റെ ഒരു കനംകുറഞ്ഞ ഫിലിം ഉണ്ടാക്കാം അല്ലെങ്കിൽ കനംകുറഞ്ഞ ജെൽ ഉണ്ടാക്കാം അതുമല്ലെങ്കിൽ കനം കൂടിയ ജെൽ ഉണ്ടാക്കാം പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ കോളേജനുമായി ചെയ്യാൻ സാധിക്കും അത് എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾ വളരെ കട്ടികുറഞ്ഞ ഒരു ഫിലിം ഇവിടെ വയ്ക്കുക അതു കാരണം വളരെ കുറച്ച് മോളിക്യൂളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ അതിനെ മുകളിൽ ഇങ്ങനെ പരത്തി വെക്കേണ്ടതാണ് ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു ഫിലിം ഇനി നിങ്ങൾക്ക് കട്ടികുറഞ്ഞ ജെൽ ആണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടണം അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആഴം കൂട്ടണം അതിനായി കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൂടുതൽ മോളിക്യൂളുകൾ അവിടെ അടുത്തടുത്ത് വരും ഇവിടെ ഇൻട്രാക്ഷൻ 2 ഘട്ടത്തിൽ ആണ് നടക്കുന്നത് അത് മോളിക്യൂളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് അതുകാരണം അവ കൂടുതൽ അടുത്ത് വരും രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവയുടെ ഉപരിതലത്തിൽ ഉപരിതലം ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് കോശങ്ങൾ വന്ന് ബന്ധപ്പെടുന്നത് ഇവിടെ കറുത്തനിറത്തിൽ കൊടുത്തിരിക്കുന്നത് കോശങ്ങളെയാണ് ഈ ഇൻട്രാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നിങ്ങൾക്ക് ഒരു കട്ടിയുള്ള ജെൽ ആണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ നിങ്ങൾ ഈ മൊത്തം മെട്രിക്സിലും ജെൽ മെട്രിക്സ് വേക്കേണ്ടതാണ് ഏകദേശം ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത് കുറച്ചുകൂടി സങ്കീർണമായ ഇൻട്രാക്ഷൻ ആയി മാറും ഏകദേശം ഇതുപോലെ വരും നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കട്ടി കൂടി വരികയാണ് എന്ന് ഇവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളത് അതിൽ ഒന്നാമത്തേത് ഈ കൊളാജൻ മോളിക്യൂളുകളുടെ ഇടയിലുള്ള സ്ഥലം അപ്പോൾ ഇവിടെ നിങ്ങൾ കോശങ്ങളെ ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ കട്ടികുറഞ്ഞ ഫിലിമിൽ അല്ലെങ്കിൽ കട്ടികുറഞ്ഞ ജെല്ലിലൊ അല്ല വളർത്തുന്നത് ഒരു മുഴുവൻ ജെല്ലിലാണ് അതായത് നിങ്ങൾക്ക് ഒരു 3 ഡൈമൻഷനൽ കൾച്ചർ ഉണ്ടാക്കാനാണ് താല്പര്യം 3 ഡൈമൻഷനൽ കൾച്ചർ ഉണ്ടാകണമെങ്കിൽ ചില ഘടകങ്ങൾ നോക്കേണ്ടതാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങാം